നമസ്കാരം മെക്കനോബയോളജിയുടെ ആമുഖത്തിന്റെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോക്കൽ അഡ്ഹീഷനുകളെക്കുറിച്ചുള്ള ചർച്ച പൂർത്തിയാക്കി സെല്ലിന്റെ ഘടന അതിന്റെ ചലനാത്മകത ഫോഴ്സുകളുടെ വിനിയോഗം എന്നിവ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ സൈറ്റോസ്ക്ലെട്ടൺ എന്ന പ്രവർത്തന സംവിധാനത്തിനെപ്പറ്റിചർച്ചചെയ്യാൻ തുടങ്ങി ആക്റ്റിൻ മൈക്രോട്യൂബുളുകൾ ഇന്റർമീഡിയറ്റ് ഫിലമെന്റുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച മൂന്ന് വ്യത്യസ്ത ഫിലമെന്റ് സംവിധാനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് ഈ മൂന്ന് സൈറ്റോസ്ക്ലെറ്റോണുകൾ ഒരുമിച്ച് സെല്ലിന്റെ മെക്കാനിക്കൽ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു ഞാൻ ആക്റ്റിൻ അതിന്റെ പോളിമറൈസേഷൻ ഡൈനാമിക്സ് എന്നിവ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു നമുക്ക് ജി ആക്റ്റിൻ എഫ് ആക്റ്റിൻ F Actinഎന്നിങ്ങനെ ആക്റ്റിനിൻറെ രണ്ട് വിഭാഗങ്ങളുണ്ട് ജി ആക്റ്റിന്റെ പോളിമറൈസേഷനിലൂടെയാണ് എഫ് ആക്റ്റിൻ ഫിലമെന്റുകൾ രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഫിലമെന്റുകൾ രൂപപ്പെടുത്താനുള്ള കഴിവ് നിർണ്ണയിക്കുന്നത് ജി ആക്റ്റിന്റെ സാന്ദ്രതയാണ് അതിനാൽ നിർണായകമായ സാന്ദ്രതയ്ക്ക് താഴെയായി നിങ്ങൾക്ക് ഫിലമെന്റുകളൊന്നും ഉണ്ടാകില്ല Cc എന്നത് നിർണായക സാന്ദ്രതയാണ് അതിനാലാണ് Cc ക്കു മുകളിൽ ഫിലമെന്റുകൾ രൂപം കൊള്ളുന്നത് ഈ Cc എന്നത് ഓർഡർ 0 1 മൈക്രോ മോളാർ ആണെന്ന് നിർണയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സസൂക്ഷ്മം നടത്തിയ പരീക്ഷണങ്ങളിൽ ഈ ആക്റ്റിൻ ഫിലമെന്റുകൾ പോളറൈസ് ചെയ്യുന്നതായി കാണുന്നു അതായത് എഫ് ആക്റ്റിൻ ഫിലമെന്റുകൾ പോളറൈസ് ചെയ്യുന്നു ഇത് എന്താണ് അർത്ഥമാക്കുന്നത് പോളറൈസ്ഡ് എന്നാൽ നിങ്ങൾക്ക് ഒരു ഫിലമെന്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു ദിശയിലേക്ക് വളരാനുള്ള വലിയ പ്രവണത ഉണ്ടാകും അത് എങ്ങനെ സാധ്യമാകും സസൂക്ഷ്മമായ പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതെന്താണ് നിങ്ങൾക്ക് നിലവിൽ ഒരു ഫിലമെന്റ് ഉണ്ടെങ്കിൽ ഫിലമെന്റിന്റെ ഒരറ്റം ഞാൻ മറയ്ക്കുന്നു എന്ന് വിചാരിക്കുക ഈ അറ്റം ഏതു നിർണായക സാന്ദ്രതയിലാണ് വളരുന്നതെന്ന് ഞാൻ നോക്കുന്നു എന്തെന്നാൽ സാധാരണയായി ഇത് വളരെ വേഗത്തിൽ വളരുന്നു അപ്പോൾ ഇതാണ് പ്ലസ് അറ്റം അല്ലെങ്കിൽ ബാർബെഡ് അറ്റം ആണ് ഈ നിർണ്ണായക സാന്ദ്രത 0 1 മൈക്രോ മോളാർ ആണ് ഇനി മറ്റേ അറ്റത്ത് ഞാൻ സമാനമായ ഒരു പരീക്ഷണം നടത്തുകയാണെങ്കിൽ അതിൽ ബാർബെഡ് എൻഡ് ഞാൻ ഒരു ക്യാപ്പിംഗ് പ്രോട്ടീൻ ഉപയോഗിച്ച് തടയുന്നു നിങ്ങൾ സാധാരണയായി ഒരു ക്യാപ്പിംഗ് പ്രോട്ടീൻ ഉപയോഗിക്കുന്നു മൈനസ് അറ്റത്ത് ഇത് ഏത് നിരക്കിൽ വളരുമെന്ന് നിങ്ങൾ നോക്കുകയും അത് Cc 0 6 മൈക്രോ മോളാർ ആണെന്ന് മനസ്സിലാകുന്നു നിങ്ങൾക്ക് രണ്ട് അറ്റങ്ങളുണ്ടെന്ന് പറയാം മൈനസ് അറ്റം വളരാൻ ജി ആക്റ്റിന്റെ സാന്ദ്രത പ്ലസ് അറ്റത്തേക്കാൾ 6 മടങ്ങ് ആവശ്യമാണ് പ്ലസ് അറ്റത്തു ഫിലമെന്റ് വളരുന്നതിന് നിങ്ങൾക്ക് 0 1 മൈക്രോ മോളറിന്റെ നിർണായക സാന്ദ്രത ആവശ്യമാണ് ഫിലമെന്റ് മൈനസ് അറ്റം വളരുന്നതിന് നിങ്ങൾക്ക് 0 6 മൈക്രോമീറ്റർ ആവശ്യമാണ് അതായത് നിങ്ങൾക്ക് 6 മടങ്ങ് സാന്ദ്രത ആവശ്യമാണ് നിങ്ങളുടെ സാന്ദ്രതയുടെ മൂല്യം ഈ അറ്റത്ത് 0 1 മൈക്രോ മോളാറും ഇവിടെ മൂല്യം 0 6 മൈക്രോ മോളാറും ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഒരു ഫിലമെന്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് ശ്രേണികൾക്കിടയിലുള്ള മോണോമർ സാന്ദ്രതയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് നിലവിൽ ഒരു ഫിലമെന്റ് ഉണ്ട് നിങ്ങളുടെ മോണോമറുകളിൽ ഒന്ന് ചുവപ്പ് നിറത്തിൽ ടാഗ് ചെയ്തതായി പറയട്ടെ അതിനാൽ ഈ മോണോമർ ഫിലമെന്റിലേക്ക് കൂടിച്ചേരും കാരണം ഈ സാന്ദ്രതയിൽ ഫിലമെന്റ് മൈനസ് അറ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്ലസ് അറ്റം വളരെ വേഗത്തിൽ വളരും സമയത്തിന്റെ പ്രവർത്തനമായി നിങ്ങൾ ഇത് ട്രാക്കു ചെയ്യുകയാണെങ്കിൽ ഈ ചുവന്ന മോണോമർ ഇവിടെയുണ്ടെന്നും സമയം കഴിയുന്തോറും അത് ഫിലമെന്റ് പിന്നിലേക്ക് പിന്നിലേക്ക് ആയി നീങ്ങുകയും ഒടുവിൽ ഒരു സമയത്ത് അത് ഏറ്റവും അറ്റത്തുനിന്നും പുറത്തുവരുകയും ചെയ്യും മുൻപിലെ അറ്റത്തായി ചേർക്കുന്ന എന്തെങ്കിലും മൈനസ് അറ്റത്ത് എത്തുന്ന ഈ പ്രവർത്തനത്തെ ട്രെഡ്മില്ലിംഗ് എന്ന് വിളിക്കുന്നു അപ്പോൾ ആക്റ്റിന്റെ രസകരമായ നിരവധി വശങ്ങളുണ്ട് കൂടാതെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതും തെളിയിക്കപ്പെട്ടതും എന്തെന്നാൽ നിങ്ങൾക്ക് നിലവിലുള്ള ആക്റ്റിൻ ഫിലമെന്റിൽ Arp 23 എന്ന പ്രോട്ടീന്റെ സാന്നിധ്യത്തിൽ ഒരു ബ്രാഞ്ചിംഗ് ഇവന്റ് ഉണ്ടാവാം ഇത് എന്റെ Arp 23 ആണെന്ന് പറയാം ഇവിടെ ഒരു ബ്രാഞ്ചിന്റെ രൂപീകരണം ഉണ്ടാകും കൂടാതെ ഈ കോൺ 70 ഡിഗ്രിയാണ് അതിനാൽ Arp 23 ജി ആക്റ്റിൻ എന്നിവയുടെ സാന്നിധ്യത്തിൽ ഒരൊറ്റ ഫിലമെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ശൃംഖല രൂപീകരിക്കാൻ കഴിയും ഇത് വിപുലമാണ് അതായത് ബ്രാഞ്ചിങ്ങിന്റെ അനന്തരഫലമായി ശൃംഖല വികസിക്കുന്നു നിങ്ങൾക്ക് ഒരു നേർത്ത മെംബ്രേയ്ൻ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ ഒരു ചെറിയ ഫിലമെന്റ് ഉപയോഗിച്ച് ആരംഭിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ധാരാളം കുത്തുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇവ ജി ആക്റ്റിൻ മോണോമറുകളാണ് ഇതാണ് ജി ആക്റ്റിൻ ഇതാണ് എന്റെ ഫിലമെന്റ് നമ്മൾക്കു Arp 23 ഉണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുശേഷം ഈ ഫിലമെന്റുകൾ രൂപം കൊള്ളാൻ തുടങ്ങുകയും അവ ഈ മെംബ്രേയ്നിൽ ഫോഴ്സ് പ്രയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇത് എൻറെ സെൽ മെംബ്രേയ്ൻ ആണ് ഈ ഫിലമെന്റ് ശൃംഖലയുടെ വളർച്ച മെംബ്രേയ്ൻ വികലത്തിലേക്ക് നയിക്കും അല്ലെങ്കിൽ അത് മെംബ്രേയ്നിനെ തള്ളും എന്നിരുന്നാലും നിങ്ങളുടെ മെംബ്രേയ്ൻ കടുപ്പമുള്ളതാണെങ്കിൽ അഥവാ നിങ്ങൾ ഒരു മെംബ്രേയ്നിനുപകരം ദൃഢമായ ഒരു ഭിത്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൃഢമായ ഒരു ഭിത്തി ഉണ്ടെന്നും പോളിമറൈസ് ചെയ്ത ഫിലമെന്റുകളുണ്ടെന്നും നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾക്ക് ദൃഢവും സ്ഥിരതയുള്ളതുമായ ഒരു ഭിത്തിയുണ്ടെങ്കിൽ കൂടാതെ നിങ്ങളുടെ ആക്റ്റിൻ ശൃംഖലയുടെ പിൻഭാഗം ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മുഴുവൻ ശൃംഖലയും പുറകിലോട്ട് ചലിക്കും നിങ്ങളുടെ ശൃംഖലയുടെ പിൻഭാഗം ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ശൃംഖല യഥാർത്ഥത്തിൽ ഭിത്തിയിൽ തള്ളുന്ന ഒരു ഫോഴ്സ് ചെലുത്തും ഏറ്റവും രസകരമായ ഒരു കാര്യം ഒരു ആക്റ്റിൻ ശൃംഖലയ്ക്ക് പ്രയോഗിക്കാൻ കഴിയുന്ന പരമാവധി ഫോഴ്സ് എത്രയാണെന്ന് കണ്ടെത്തുക എന്നതാണ് അടുത്തതായി വരുന്ന മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഒരു ആക്റ്റിൻ ശൃംഖലയുടെ ഫോഴ്സ് വെലോസിറ്റി ബന്ധത്തിന്റെ സ്വഭാവം എന്താണ് നിങ്ങൾ ഈ ഭിത്തി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പോളിമറൈസേഷൻ ഫോഴ്സുകൾ ഈ ഭിത്തി യെ ഈ ദിശയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഭിത്തിയിൽ ഒരു നിശ്ചിത ഫോഴ്സ് f പ്രയോഗിക്കുന്നുണ്ടെന്ന് സങ്കൽപ്പിക്കുക അതിനാൽ പോളിമറൈസേഷന്റെ ഫലം അഥവാ പോളിമറൈസേഷന്റെ ഫലമായി ഉണ്ടാകുന്ന ഫോഴ്സ് ഈ ഫോഴ്സിനേക്കാൾ കുറവാണെങ്കിൽ ഭിത്തി അതിന്റെ സ്ഥാനത്ത് സ്ഥിരമായി തുടരും എന്നാൽ ഫോഴ്സ് ഈ f നേക്കാൾ വലുതാണെങ്കിൽ ഭിത്തി നീങ്ങും അതിന്റെ പരിണിതഫലമായി ഒരു ഫോഴ്സ് f ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും ഒരു ആക്റ്റിൻ ശൃംഖലയുടെ പോളിമറൈസേഷന് വിധേയമാക്കുകയും ചെയ്താൽ ഒരു ഭിത്തിക്ക് ചലനം ഉണ്ടാവുന്ന നിരക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ട്രാക്കു ചെയ്യാനാകും ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ രണ്ട് സമീപനങ്ങൾ കാണിക്കാൻ പോകുന്നു ഒന്ന് പരീക്ഷണാത്മകവും മറ്റൊന്ന് കമ്പ്യൂട്ടേഷണലും ആണ് പരീക്ഷണാത്മകമായി നിങ്ങൾക്ക് ഒരു സെൽ ഉണ്ട് കൂടാതെ നിങ്ങൾ ഒരു AFM കാന്റിലിവർ സജ്ജമാക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക നമ്മുടെ എല്ലാ പ്രോട്ടീൻ വികസിപ്പിക്കുന്ന പരീക്ഷണങ്ങളിലുംAFM ഈ ദിശയിലേക്ക് നീങ്ങുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങളുടെ AFM കാന്റിലിവറിന് യഥാർത്ഥത്തിൽ ഇതുപോലൊരു ജ്യാമിതി ഉള്ള ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യാൻ കഴിയും സെൽ ഈ ദിശയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രത്യേക പരീക്ഷണത്തിലെ ഈ ജ്യാമിതിയുടെ പ്രയോജനം എന്തെന്നാൽ നിങ്ങൾക്ക് ടിപ്പിന്റെ വ്യതിചലനം നിരീക്ഷിക്കാൻ കഴിയും മൈഗ്രേഷനെ നയിക്കുന്നത് ആക്റ്റിൻ പോളിമറൈസേഷനാണ് അതിനാൽ നിങ്ങൾ ഇവിടെ ഒരു ടിപ്പ് ഇടുകയാണെങ്കിൽ സെൽ ഈ ടിപ്പിനെ തള്ളുന്നത് പോലെ തുടക്കത്തിൽ ടിപ്പ് വികൃതമാക്കാൻ തുടങ്ങും പക്ഷേ ഒരു നിശ്ചിത വ്യതിചലനത്തിനപ്പുറം ടിപ്പ് സെല്ലിൽ പ്രതിരോധിക്കുന്ന ഒരു ഫോഴ്സ് ചെലുത്താൻ ശ്രമിക്കും അതിനർത്ഥം സെൽ കൂടുതൽ കൂടുതൽ ഫോഴ്സിന് വിധേയമാകുന്നു സ്ഥാനമാറ്റത്തെ സമയത്തിന്റെ പ്രവർത്തനമായി നിങ്ങൾക്ക് ട്രാക്കു ചെയ്യാനാകും അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് അതിനാൽ ടിപ്പിന്റെ വ്യതിചലനം അല്ലെങ്കിൽ സ്ഥാനചലനം സമയത്തിന്റെ പ്രവർത്തനമായി ഞാൻ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കർവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇതിൽ നിന്നും നിങ്ങൾ കാണുന്നത് എന്തെന്നാൽ സമയം കടന്നുപോകുന്നതിന് അനുസരിച്ച് സെൽ തള്ളുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും കൂടാതെ ഇത് ടിപ്പ് വ്യതിചലനം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്നു ഒരു നിശ്ചിത ഫോഴ്സ് എത്തിക്കഴിഞ്ഞാൽ സെല്ലിന് ഇനി ടിപ്പ് തള്ളാൻ കഴിയില്ല അനന്തരഫലമായി ടിപ്പ് വ്യതിചലനം സമതലം ആവുന്നു അതിനർത്ഥം സെൽ തള്ളുന്നത് നിർത്തുന്നു ഇതിൽ നിന്നും അഥവാ ഈ കർവിൽ നിന്നും നിങ്ങൾക്ക് ഫോഴ്സ് വേഴ്സസ് വെലോസിറ്റി സൃഷ്ടിക്കാൻ കഴിയും വെലോസിറ്റി എന്നാൽ മറ്റൊന്നുമല്ല ഈ കർവിൻറെ സ്ലോപ് ആണ് കൂടാതെ ഫോഴ്സ് എന്നത് k ഗുണനം d ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഫോഴ്സ് വെലോസിറ്റി കർവ് ആയി പരിവർത്തനം ചെയ്യാൻ കഴിയും ഈ കർവ് ഇതുപോലെയോ അല്ലെങ്കിൽ ഇതുപോലെയോ കാണപ്പെടാം അതിനാൽ നിങ്ങൾക്ക് ഒരു കോൺകേവ് ഫോഴ്സ് വെലോസിറ്റി ബന്ധം ഉണ്ടെന്ന് പരീക്ഷണാത്മകമായി നിരവധി ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട് അതിനാൽ ഒരു നിശ്ചിത അളവിൽ ഉള്ള ഫോഴ്സിന്റെ സാന്നിധ്യത്തിൽ ഒരു സെല്ലിന് സ്ഥിരമായ വെലോസിറ്റിയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയും എന്നാൽ ഒരു നിശ്ചിത കട്ട് ഓഫിനപ്പുറം വെലോസിറ്റി ഗണ്യമായി കുറയുന്നു ഫൈബ്രോബ്ലാസ്റ്റിനായുള്ള ഈ കട്ട് ഓഫ് 0 4 നാനോ ന്യൂട്ടണുകളുടെ ക്രമത്തിലാണെന്ന് ഞാൻ കരുതുന്നു സെല്ലിന് സ്ഥിരമായ വേഗതയിൽ മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന പരമാവധി ഫോഴ്സ് ആണിത് പക്ഷേ ഈ സജ്ജീകരണത്തിൻറെ എഞ്ചിനീയറിംഗ് ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾക്ക് നിലവിലുള്ളതോ വാണിജ്യപരമായി ലഭ്യമായതോ ആയ AFM ഉപയോഗിക്കാൻ കഴിയില്ല അളവുകൾ എടുക്കുന്നതിനായി നിങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിങ്ങളുടെ സ്വന്തം ഉപകരണം നിർമ്മിക്കുകയും വേണം സിമുലേഷനുകളിൽ ഉള്ള മറ്റൊരു മാർഗം എന്തെന്നാൽRefer Time 1403 ഫോഴ്സ് വെലോസിറ്റി കർവുകൾ അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് കോൺവെക്സ് f v കർവുകൾ വേഴ്സസ് കോൺകേവ് f v കർവുകൾ ലഭിക്കുകയെന്ന ഉത്തരം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു മോണ്ടെ കാർലോ സിമുലേഷനുകൾ ഉപയോഗിക്കുന്ന ഒരു സമീപനത്തെക്കുറിച്ച് ഞാൻ വിവരിക്കാം അതിനാൽ നിങ്ങൾ എങ്ങനെ ഒരു മോണ്ടെ കാർലോ സിമുലേഷൻ സജ്ജീകരിക്കും നമുക്ക് പടിപടിയായി അതിനെക്കുറിച്ച് നോക്കാം സിമുലേഷന്റെ ഭാഗമായി ഞാൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആക്റ്റിൻ പോളിമറൈസേഷൻ ആക്റ്റിൻ ഡിപോളിമറൈസേഷൻ ആക്റ്റിൻ ബ്രാഞ്ചിംഗിന്റെ പ്രഭാവം എന്നിവ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരമൊരു മാതൃക എങ്ങനെ സജ്ജീകരിക്കാമെന്ന് ഞാൻ വരയ്ക്കാം നിങ്ങൾ ഒരു നിശ്ചിത നീളമുള്ള ഒരു ആക്റ്റിൻ ഫിലമെന്റിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് സങ്കൽപ്പിക്കുക ഈ കേസിൽ മൂന്ന് മോണോമറുകുകൾ ഉള്ളവയാണെന്ന് നമുക്ക് പറയാം ഫിലമെന്റിന്റെ പിൻഭാഗത്തെ ഭിത്തി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഫിലമെന്റുകൾക്ക് പിന്നോട്ട് നീങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു ജി ആക്റ്റിൻ സാന്ദ്രത നിർദ്ദേശിക്കാനും തുടർന്ന് അനുകരിക്കാനും കഴിയും ഇവിടെ സംഭവിക്കാൻ ഇടയുള്ള മൂന്ന് സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ഫിലമെന്റിന്റെ വളർച്ച ഉണ്ടാകാം ഈ ഫിലമെന്റ് വളരുക എന്നത് ഒരു സാധ്യതയാണ് രണ്ടാമത്തെ സാധ്യത ഈ ഫിലമെന്റിന് ചുരുങ്ങാൻ കഴിയും ഇത് പോളിമറൈസേഷനാണ് ഇത് ഡിപോളിമറൈസേഷനെ സൂചിപ്പിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് ഒരു സാഹചര്യം കൂടി പറയാം നിങ്ങളുടെ ഫിലമെന്റ് മതിയായ നീളം ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോണിൽ ആരംഭിക്കുന്ന മറ്റൊരു ഫിലമെന്റ് ചേർക്കാം ഈ കോൺ 70 ഡിഗ്രി യാണ് അതിനാൽ ഇത് ഒരു ബ്രാഞ്ചിംഗ് ഇവന്റിനെ അനുകരിക്കുന്നു ബ്രാഞ്ചിംഗ് സംഭവിക്കുന്നതിന് രണ്ട് തടസ്സങ്ങളുണ്ട് ഫിലമെന്റ് വളരെ ചെറുതാണെങ്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് സാധാരണ പ്രതീക്ഷിക്കുന്നു അതിനായി സിമുലേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഫിലമെന്റ് നീളം ഒരു പ്രത്യേക നീളത്തേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമുക്ക് Dbr എന്ന് പറയാം നിലവിലുള്ള ഒരു ഫിലമെന്റിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബ്രാഞ്ചിൻറെ ഏറ്റവും കുറഞ്ഞ നീളമാണിതെന്ന് ഞാൻ എഴുതുന്നു അപ്പോൾ ഈ ഫിലമെന്റിന്റെനീളം Dbr ആകുന്നതുവരെ നിലവിലുള്ള ഫിലമെന്റിൽ നിന്ന് പുതിയ ഫിലമെന്റിന് ബ്രാഞ്ച് ചെയ്യാൻ കഴിയില്ല ഇത് ഉറപ്പാക്കുന്നത് നിങ്ങൾക്ക് ഈ ഫിലമെന്റ് ബ്രാഞ്ച് ലഭിച്ചുകഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഒരു പുതിയ ഫിലമെന്റായി മാറുന്നു എന്നാണ് നിങ്ങൾക്ക് മറ്റൊരു ബ്രാഞ്ചിംഗ് ഇവന്റ് സംഭവിക്കാൻ അഥവാ ഇവിടെ നിന്ന് മറ്റൊരു ബ്രാഞ്ചിംഗ് ഇവന്റ് ഉണ്ടെന്ന് പറയട്ടെ അപ്പോൾ ഈ ദൂരം Dbr നെക്കാൾ വലുതായിരിക്കണം രണ്ട് ബ്രാഞ്ചിംഗ് ബിന്ദുക്കൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം കൂടിയാണ് Dbr അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ശൃംഖലയുടെ വളർച്ചയെ അനുകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഫിലമെന്റുകൾ നിങ്ങൾക്കുണ്ട് അവ ഞാൻ ഇതുപോലെ വരയ്ക്കാം നിങ്ങൾക്ക് ഇവിടെ വീണ്ടും മറ്റൊരു ഫിലമെന്റ് ഘടകം ഉണ്ടാകാം ഈ നീളം d Dbr നേക്കാൾ വലുതായിരിക്കണം ഭിത്തിയുടെ സ്ഥാനം ആണ് നിങ്ങൾ ആരംഭിക്കുന്ന മറ്റൊരു കാര്യം സിമുലേഷന്റെ തുടക്കത്തിൽ ഭിത്തിയുടെ സ്ഥാനം എന്താണ് നിങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് f എന്താണ് നിങ്ങൾ കുറഞ്ഞത് 3 മോണോമറുകളിൽ ആരംഭിക്കുന്നു നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു ദൂരമുണ്ട് ഈ ദൂരം Dw അല്ലെങ്കിൽ Dwall ആണെന്ന് പറയട്ടെ ഫിലമെന്റ് പോളിമറൈസ് ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന ചില സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് സങ്കൽപ്പിക്കാം തുടക്കത്തിൽ തന്നെ ഫിലമെന്റ് ഭിത്തിയിൽ നിന്ന് വളരെ അകലെ സ്ഥാപിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിശ്ചിത നിരക്ക് ലഭിക്കും ഒരു മോണോമറിന് ron എന്ന നിരക്കിൽ ചേരാൻ കഴിയും ഈ ron അഥവാ പോളിമറൈസേഷൻ നടക്കുന്ന നിരക്ക് രണ്ട് കാര്യങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നു നിങ്ങൾക്ക് ron ന്റെ സൂത്രവാക്യം ഇൻട്രിൻസിക് പോളിമറൈസേഷൻ നിരക്ക് k0 ഗുണനം ജി ആക്റ്റിൻ സാന്ദ്രത എന്ന് എഴുതാം ഫിലമെന്റ് ഭിത്തിയിൽ നിന്ന് വളരെ അകലെയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മോണോമർ ചേർക്കാൻ കഴിയുന്ന നിരക്കാണിത് എന്നിരുന്നാലും തുടർന്നുള്ള പോളിമറൈസേഷന്റെ അനന്തരഫലമായി ഫിലമെന്റ് ഭിത്തിയിൽ തൊടാൻ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് സങ്കൽപ്പിക്കാം നിങ്ങൾക് ഭിത്തിയെ തള്ളുന്ന ഒരു ഫോഴ്സ് f ഉണ്ട് നിങ്ങളുടെ ron അത് k0 C എന്ന സൂത്രവാക്യത്തെ പരിഷ്കരിക്കും സാധാരണ ചെയ്യുന്നത് എന്തെന്നാൽ k0 Ce fKBT ഇതുപോലുള്ള ഒരു സൂത്രവാക്യം നിങ്ങൾ എഴുതുന്നു d എന്നത് ഒരൊറ്റ മോണോമർ നീളമാണെന്നും കൂടാതെ e fKBTഎന്നതിനോട് ആശ്രയത്വം ഉണ്ടെന്നും നമുക്ക് അനുമാനിക്കാം KBT ക്ക് ഊർജ്ജത്തിന് യൂണിറ്റുകൾ ഉണ്ട് f ഫോഴ്സ് ആണ് ഡെൽറ്റ ആ ബിന്ദുവിൽ ഒരു മോണോമർ ചേർക്കുന്നതിനായി ഭിത്തി നീക്കേണ്ട ദൂരം ആണ് ഞാൻ മോണോമർ നീളം ആയ d യും ഡെൽറ്റയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുകയാണെങ്കിൽ എനിക്ക് നേർവരയിൽ ഉള്ള ഫിലമെന്റിന്റെ കാര്യത്തിൽ ഒരു പുതിയ മോണോമർ ചേർക്കണമെങ്കിൽ ഡെൽറ്റ d ക്ക് തുല്യമായിരിക്കണം എന്നാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ജ്യാമിതി ഉണ്ടെങ്കിൽ ഇതാണ് എന്റെ ഭിത്തി കൂടാതെ എനിക്ക് ഇവിടെ ഒരു മോണോമർ ചേർക്കണം അപ്പോൾ ഡെൽറ്റഎന്നത് മറ്റൊന്നുമല്ല d cos θ ആണ് ഇവിടെ θ എന്നത് 70 ഡിഗ്രിയാണ് കാരണം പുതിയ ഫിലമെന്റ് 70 ഡിഗ്രി കോണിൽ ആണ് ചേരുന്നത് അപ്പോൾ ഡെൽറ്റ വ്യത്യസ്തമാകാം എന്നാൽ ഇവിടെയുള്ള പ്രവർത്തനപരമായ ആശ്രിതത്വം നോക്കിയാൽ അത് പറയുന്നത് ഭിത്തിയെ നിയന്ത്രിക്കുന്ന ഒരു വലിയ അളവിലുള്ള ഫോഴ്സ് സംയോജനത്തിൻറെ നിരക്ക് പൂജ്യത്തിന് അടുത്തായിരിക്കും എന്നാൽ f ചെറുതാണെങ്കി ൽ ഒരുപക്ഷേ ആ ഭിത്തി പിന്നിലേക്ക് തള്ളാം ഇതിനു സമാനമായി ഇതേ കാര്യം നിങ്ങൾക്ക് ബ്രാഞ്ചിംഗിന്റെ നിരക്കിനും ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് മൂന്ന് ഇവന്റുകൾ നടത്താൻ കഴിയുന്ന ഒരു ഫിലമെന്റ് നൽകിയിട്ടുണ്ട് നമുക്ക് പറയാം n ഫിലമെന്റുകളുണ്ടെങ്കിൽ ഓരോ ഫിലമെന്റിനും പോളിമറൈസ്ചെയ്യാൻ കഴിയും അതിനാൽ എത്ര സാധ്യതകളുണ്ട് നിലനിൽക്കുന്ന ഓരോ ഫിലമെന്റിനും n സാധ്യതകളുണ്ട് ഓരോ ഫിലമെന്റിനും ഡിപോളിമറൈസ് ചെയ്യാൻ കഴിയും അതിന് വീണ്ടും n സാധ്യതകളുണ്ട് കൂടാതെ ഓരോ ഫിലമെന്റിനും ബ്രാഞ്ചുകളും അതിനാൽ ഇവിടെ അത് n സാധ്യതകളല്ല പകരം j സാധ്യതകളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പൂർത്തിയാക്കേണ്ട ഈ പരിമിതി ഉണ്ടായിരിക്കണം എന്തുകൊണ്ടാണ് j എന്നത് n ന് തുല്യമാകുന്നത് കാരണം രണ്ട് ബ്രാഞ്ചിംഗ് ബിന്ദുക്കൾ തമ്മിലുള്ള കുറഞ്ഞ ദൂരം Dbr നേക്കാൾ കൂടുതലായിരിക്കണം എന്ന നിയന്ത്രണം നമുക്ക് ഉണ്ട് നിങ്ങൾക്ക് ചില ഇൻട്രിൻസിക് പാസിംഗ് നിരക്ക് kbr ഉണ്ട് എന്നാൽ ദൂരം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അവ രംഗത്തേക്ക് വരികയുള്ളൂ അതിനാൽ ഏത് സമയ ഘട്ടത്തിലും മൊത്തം 2n j ഇവന്റുകൾ eventsസാധ്യമാണ് മോണ്ടെ കാർലോയിൽ നിങ്ങൾ ചെയ്യുന്നത് ഏതു സമയത്തും ഇവന്റുകളിൽ ഒന്ന് ഒന്നുമാത്രം ട്രിഗർ ചെയ്യുക എന്നതാണ് അതിനാൽ ഏത് സമയ ഘട്ടത്തിലും നിങ്ങൾക്ക് ഒരു പോളിമറൈസേഷൻ ഇവന്റ് event ഡിപോളിമറൈസേഷൻ ഇവന്റ് event അല്ലെങ്കിൽ ബ്രാഞ്ചിംഗ് ഇവന്റ് event നടത്താം അതിനാൽ പ്രോബബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും പോളിമറൈസേഷന്റെ മൊത്തം നിരക്ക് നിങ്ങൾക്കറിയാം n ഫിലമെന്റുകൾ ഉണ്ടെങ്കിൽ മൊത്തം പോളിമറൈസേഷൻ നിരക്ക് എന്നത് എല്ലാ ഫിലമെന്റുകളുടെയും ron ന്റെ ആകെ തുകയ്ക്ക് തുല്യമാണ് ron ഇതുപോലെതന്നെ നിങ്ങൾക്ക് മൊത്തം ഡിപോളിമറൈസേഷൻ നിരക്ക് കണ്ടെത്താൻ കഴിയും സാധാരണയായി സിമുലേഷനിൽ ഡിപോളിമറൈസേഷൻ നിരക്ക് സ്ഥിരമാണ് നിങ്ങൾക്ക് ബ്രാഞ്ചിംഗ് നിരക്കും ഉണ്ടായിരിക്കാം അതിനാൽ ചുരുക്കത്തിൽ ഓരോ ഇവെന്റിന്റേയും പ്രോബബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഇത് ആ പ്രത്യേക ഇവെന്റിനെ km ന്റെ ആകെ തുക കൊണ്ട് ഹരിക്കുന്നത് ആണ് Pmkmm12njkm ഇവിടെ m ൻറെ മൂല്യം 1 മുതൽ 2n j വരെ ആണ് നിങ്ങൾക്ക് പ്രധാനമായും ഈ ഇവന്റുകളുടെ പ്രോബബിലിറ്റി കണ്ടെത്താനാകും തുടർന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത് ട്രിഗർ ചെയ്യാൻ പോകുന്ന ഡെൽറ്റ t കണ്ടെത്താനാകും ഇതിനെ നിർവചിച്ചിട്ടുള്ളത് ഇങ്ങനെ ആണ് t1kmln r എന്നത് ഇത് 0 നും 1 നും ഇടയിലുള്ള ഒരു ഏകീകൃത റാൻഡം സംഖ്യയാണ് ഞാൻ ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു അടുത്ത ലെക്ച്ചറിൽ നമ്മൾ ഈ ചർച്ച തുടരും